എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 ലെ ലെക്ചർ നമ്പർ 22ലേക്ക് സ്വാഗതം ഇന്റഗ്രൽ കാൽക്കുലസിനെക്കുറിച്ചുള്ള ടൈപ്പ് 1 ന്റെ ഇoപ്രോപ്പർ ഇന്റഗ്രലുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച തുടരും ഇന്ന് നമ്മൾ ടൈപ്പ് 1 ഇന്റഗ്രലുകളുടെ കൺവെർഗെൻസിനെക്കുറിച്ച് സംസാരിക്കും അവസാന പ്രഭാഷണത്തിൽ ആ ഇന്റഗ്രലുകളെയോ ടൈപ്പ് 1 ന്റെ ഇന്റഗ്രലുകളെയോ എങ്ങനെ വിലയിരുത്താമെന്ന് ഞങ്ങൾ കണ്ടു മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റഗ്രൽ ൺവെർജ് ചെയ്യുകയോ അതോ ഡൈവേർജ് ചെയ്യുകയോ എന്ന് നമുക്ക് നിഗമനം ചെയ്യാം അതിനാൽ മുമ്പത്തെ ലെക്ചർ ഓർമിക്കാൻ ഈ ടെസ്റ്റ് കേസ് ചർച്ചചെയ്യാം അതിൽ p≤1 ആണെങ്കിൽ ഡൈവേർജ് അതിനാൽ ഇന്റഗ്രലുകളെ മറ്റ് ഇoപ്രോപ്പർ ഇന്റഗ്രലുകളുമായി താരതമ്യപ്പെടുത്തുന്നതിനും അണ്ടർലൈൻ ഇന്റഗ്രലിന്റെ കൺവെർജെൻസ് അവസാനിപ്പിക്കുന്നതിനും ഈ ടെസ്റ്റ് ഇന്റഗ്രൽ വളരെ ഉപയോഗപ്രദമാകും അതിനാൽ ഇവിടെ വീണ്ടും ഇതിന്റെ കൺവെർജെൻസ് p നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ p1 ന്റെ എല്ലാ മൂല്യങ്ങൾക്കും ഈ ഇന്റഗ്രൽ കൺവെർജ് p≤1 ഈ ഇന്റഗ്രൽ ഡൈവേർജ് അതിനാൽ ഇവിടെ നമ്മൾ വീണ്ടും ടൈപ്പ് 1 ഇന്റഗ്രലുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും a മുതൽ b വരെ a ∞ അല്ലെങ്കിൽ b റേഞ്ചിലെ ഏതെങ്കിലും മൂല്യത്തിന് f ബൌണ്ടഡ് ആകുമ്പോൾ നമുക്ക് ടൈപ്പ് 1 ഇന്റഗ്രൽ ഉണ്ട് ∞ മുതൽ വരെ ടൈപ്പ് 1 ഇന്റഗ്രൽ ആണ് അതിനാൽ ലിമിറ്റിൽ ഇൻഫിനിറ്റിയിൽ ദൃശ്യമാകുന്ന അത്തരം ഇന്റഗ്രലുകളുടെ കൺവെർജെൻസ്നെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ ഇത് വളരെ ഉപയോഗപ്രദമായ താരതമ്യ പരിശോധനയാണ് ഇതിനെ താരതമ്യ ടെസ്റ്റ് 1 എന്ന് വിളിക്കുന്നു അതിനാൽ f g എന്നിവ a c ∀ c≥a 0≤f≤g ∀x a എന്നിവയുമായി ഇന്റഗ്രബിളാണെന്ന് ഇവിടെ കരുതുന്നു i കൺവെർജ് ചെയ്യുന്നു എങ്കിൽ കൺവെർജ് ചെയ്യുന്നു ii ഡൈവേർജ് ചെയ്യുന്നു എങ്കിൽ ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ ഇവിടെ എന്താണ് ഈ ഇന്റഗ്രൽ ഇന്റഗ്രൽ g f നെകാൾ വലിയ മൂല്യങ്ങൾ എടുക്കുന്നു അതിനാൽ ആ സന്ദർഭത്തിൽ ഈ ഇന്റഗ്രൽ വലിയ ഇന്റഗ്രൽ ആണെങ്കിൽ ഇന്റഗ്രൽ ന് വലിയ മൂല്യമുണ്ടാകും തുടർന്ന് ഇന്റഗ്രൽ റേഞ്ച് a മുതൽ ഇന്റഗ്രൽ സ്വാഭാവികമായും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്തരമൊരു ഫലം ഇവിടെയുണ്ട് അതിനാൽ g ഏത് പോയിന്റ്ലും x a നേക്കാൾ വലിയ മൂല്യം എടുക്കുന്നതിനാൽ സ്വാഭാവികമായും ഈ ഇന്റഗ്രലും കൺവെർജ് ചെയ്യുന്നു കാരണം ഈ മൂല്യം നിലവിലുണ്ടെങ്കിൽ ഇത് അതിനേക്കാൾ ചെറുതാണ് അതിനാൽ സ്വാഭാവികമായും ഇതും നിലനിൽക്കുന്നു ഇതിൽനിന്നും നമുക്കു മറ്റൊരു നിഗമനത്തിൽ എത്താം ഡൈവേർജ് ചെയ്താൽ ചെറിയ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യപ്പെടുന്നു അതിനാൽ സ്വാഭാവികമായും ഈ g യുടെ a മുതൽ വരെയുള്ള ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുമെന്നു നമുക്ക് നിഗമനം ചെയ്യാം കാരണം f ഇവിടെ ഏത് പോയിന്റ്ലും ചെറിയ മൂല്യങ്ങൾ എടുക്കുന്നു ഇവിടെ x a നേക്കാൾ വലിയ മൂല്യം എടുക്കുന്നു ഈ ഇന്റഗ്രൽ നിലനില്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത് നിലനിൽക്കുന്നില്ല ഇതും ഡൈവേർജ് ചെയ്യും അതിനാൽ ഇവിടെ നമുക്ക് മറ്റൊരു ടെസ്റ്റുണ്ട് അതിനെ ലിമിറ്റ് താരതമ്യ പരിശോധന അല്ലെങ്കിൽ കoപാരിസൺ ടെസ്റ്റ് 2 എന്ന് വിളിക്കുന്നു നമുക്ക് ഈ f g ഉണ്ട് അവ a യേക്കാൾ വലിയ c യുടെ ഏതൊരു മൂല്യത്തിനും a മുതൽ c വരെയുള്ള റേഞ്ചിൽ ഇന്റഗ്രബിൾ ആകുന്നു f നെഗറ്റീവ് അല്ലാത്ത മൂല്യങ്ങൾ എടുക്കുന്നു a നെക്കാൾ വലുതായ x ന്റെ എല്ലാ മൂല്യങ്ങൾക്കും g കർശനമായി പോസിറ്റീവ് മൂല്യങ്ങൾ എടുക്കുന്നു ലിമിറ്റ് x ഇൻഫിനിറ്റിയിലേക്കു അടുക്കുമ്പോൾ നു രണ്ട് ഫംഗ്ഷനുകളുണ്ട് രണ്ട് ഫംഗ്ഷനുകളുടെ ഈ അനുപാതo അത് പൂജ്യമല്ലാത്ത സംഖ്യ ആണെങ്കിൽ ആകുമ്പോൾ fg എന്നിവയുടെ സ്വഭാവം സമാനമാണെന്ന് നിഗമനം ചെയ്യാംകാരണം നമുക്ക് ഇവിടെ സ്ഥിരാoഗം ലഭിക്കുന്നു ടൈപ്പ് 1 ഇന്റഗ്രൽ ഉണ്ട് ഈ കാരണത്താൽ ഈ പട്ടികയ്ക്ക് കൺവെർജ് ചെയ്യാനും ഡൈവേർജ് ചെയ്യാനും കഴിയും x ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ f g എന്നിവ ഒരുപോലെ പെരുമാറുന്നു അതിനാൽ ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ ഒന്നുകിൽ രണ്ടും കൺവെർജ് ചെയും അല്ലെങ്കിൽ ലിമിറ്റ് k നോൺ സീറോ നമ്പറായി ലഭിക്കുമ്പോൾ രണ്ടും ഡൈവേർജ് ചെയും അതിനാൽ ഈ ഫലങ്ങളെല്ലാം ഞങ്ങൾ തെളിയിക്കുകയല്ല ഉദാഹരണത്തിന്യിൽ രണ്ട് ഫംഗ്ഷനുകളുടെയും സ്വഭാവം സമാനമാണ് അങ്ങനെയാണെങ്കിൽ ഇത് കൺവെർജ് ചെയ്താൽ മറ്റൊന്നും കൺവെർജ് ചെയും ഒരു നിശ്ചിത ഇന്റഗ്രലുകൾക്ക് f നൽകിയിട്ടുണ്ടെന്ന് കരുതുക അറിയപ്പെടുന്ന ഒരു ഇന്റഗ്രൽ g നിർമ്മിക്കും അല്ലെങ്കിൽ gയിൽ ഇന്റഗ്രൽ കൺവെർജ് ചെയുന്നുണ്ടോ അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് അറിയാം ഈ ഇന്റഗ്രലിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി മറ്റ് ഇന്റഗ്രലിന്റെ കൺവെർജെൻസ് നമുക്ക് എളുപ്പത്തിൽ നിഗമനം ചെയ്യാം k 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുംഉദാഹരണത്തിന് k എന്നത് 0 എന്നതിനർത്ഥം ഇത് ഈ ഫംഗ്ഷനേക്കാൾ വേഗത്തിൽ ഇൻഫിനിറ്റിയിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ g ഇവിടെ ആധിപത്യം സ്ഥാപിക്കും തുടർന്ന് x → ∞ യിൽ ഇത് 0 ലേക്ക് പോകുകയും ചെയ്യും അതിനാൽ ഇവിടെ g ഒരു ഡോമിനേറ്റിംഗ് ഫംഗ്ഷനാണ് അതിനാൽ നമുക്ക് k 0 ലഭിക്കും ഈ സാഹചര്യത്തിൽ ഈ g ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ ഈ f നേക്കാൾ x →ആധിപത്യം പുലർത്തുന്നു ഇത് കൺവെർജ് ചെയ്താൽ സ്വാഭാവികമായും മറ്റ് ഇന്റഗ്രലും കൺവെർജ് ചെയ്യും അതിനാൽ ഇത് വീണ്ടും ലളിതമാണ് കാരണം രൂപപ്പെടുമ്പോൾ ഈ ലിമിറ്റ് 0 ആയി വരുന്നു അതിനാൽ ഇവിടെ ആകുമ്പോൾ g എന്നത് f എന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നു അതിനാൽ ഞങ്ങൾക്ക് ഇത് 0 ലഭിക്കുന്നു ഈ കാരണത്താൽ g കൺവെർജ് ചെയ്യുന്നു അതിനാൽ f ഉം കൺവെർജ് ചെയ്യുന്നു k ഇവിടെ ആണ് അതിനാൽ ഇത് പരിമിതപ്പെടുത്തുന്ന കേസിൽ ഈ അനുപാതം ഇൻഫിനിറ്റിയിലേക്ക് അടുക്കുകയാണെങ്കിൽ f ഡോമിനേറ്റിംഗ് ആകുമ്പോൾ g ഡൈവേർജ് ചെയ്യുന്നു എന്ന് നമുക്ക് നിഗമനം ചെയ്യാം അതിനാൽ ഇന്റഗ്രൽ f ഡൈവേർജ് ചെയ്യുന്നു അതിനാൽ ഇത് ഇതിനെക്കാൾ വേഗത്തിൽ വളരുകയാണ് അതിനാലാണ് ഇവിടെ ഇൻഫിനിറ്റി ലഭിക്കുന്നത് K∞ യുo ഡൈവേർജ് ചെയ്യപ്പെടുകയുമാണെങ്കിൽ ഡൈവേർജ് ചെയ്യന്നു അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത ലളിതമായ താരതമ്യ പരിശോധനയാണിത് ഇപ്പോൾ നമുക്കു ചില സാമ്പിൾ പ്രശ്നങ്ങൾ നോകാം ഉദാഹരണത്തിന് ഈ ഇന്റഗ്രൽ ന്റെ കൺവെർജെൻസ് പരിശോധിക്കാം അതിനാൽ നമുക്ക് ഇപ്പോൾ ഇതുമായി താരതമ്യപ്പെടുത്താവുന്ന x ഇൻഫിനിറ്റിയിലേക്കു പോകുന്ന മറ്റൊരു സമാനമായ പ്രവർത്തനം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ ഫംഗ്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഇവിടെ കാണാം അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് x പൊതുവായി എടുക്കുന്നു അപ്പോൾ എന്ന് കിട്ടും അതിനാൽ x ലേക്ക് സമീപിക്കുമ്പോൾ ഈ പദം 1 ലേക്ക് അടുക്കും ഇപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് അതിനാൽ അതിനാൽ x ലേക്ക് പോകുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഫംഗ്ഷൻ ഇന്റഗ്രാന്റ് ആയി പെരുമാറുന്നു ഇത് താരതമ്യത്തിനായി ഫംഗ്ഷനുകൾ സജ്ജമാക്കാൻ ഞങ്ങളെ സഹായിക്കും ശ്രദ്ധിക്കുക Let and As converges converges x ഇൻഫിനിറ്റിയിലേക്കു സമീപിക്കുമ്പോൾ ഇന്റഗ്രാന്റ്നു വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും പ്രധാനമായും നോക്കേണ്ടതുണ്ട് സിമ്പിൾ ഫംഗ്ഷൻ അനുസരിച്ച് 1xp ടൈപ്പ് ഫംഗ്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ സാഹചര്യത്തിൽ പൂജ്യമല്ലാത്ത ലിമിറ്റ് കിട്ടുന്നു അതിനാൽ 1 തുടർന്ന് ഇത് കൺവെർജ് ചെയ്യുന്നുവെന്ന് നമുക്ക് നിഗമനം ചെയ്യാം അടുത്തതായി ഇന്റഗ്രൽ ന്റെ കൺവെർജെൻസ് പരിശോധിക്കാം ഇവിടെ മുമ്പത്തെപ്പോലെ തന്നെ സമീപിക്കും ഉണ്ട് ഈ ഫംഗ്ഷന്റെ സ്വഭാവം ഇവിടെ പരിശോധിക്കും അതിനാൽ ന്യൂമറേറ്ററിൽ ഞങ്ങൾക്ക് ഉണ്ട് ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടാതെ സ്ക്വയർ റൂട്ട് ഉണ്ട് അതിനാൽ 11 x പവർ 5 അതിനാൽ ഈ പദം പോലെ ഒരു പ്രശ്നവും സൃഷ്ടിക്കുകയില്ല കാരണം ഇത് ഇവിടെ ഒന്നായിരിക്കും അതിനാൽ ഈ രണ്ട് പദങ്ങൾ സ്വഭാവത്തെ സ്വാധീനിക്കും ഇവിടെ 1x 52 ഉം 2 ഉം ഉണ്ട് കൂടാതെ ആയി ഒരു കുഴപ്പവും സൃഷ്ടിക്കാത്ത സ്ക്വയർ റൂട്ട് എന്ന പദം ഇവിടെയുണ്ട് അതിനാൽ ഇത് 1 ഓവർ x പവർ 1 പോലെ പ്രവർത്തിക്കുന്നു ഇത് 4 5 42 ആണ് അതിനാൽ 12 ആണ് അതിനാൽ പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഇതിനെ അടിസ്ഥാനമാക്കി ഫംഗ്ഷൻ g തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ലിമിറ്റ് വീണ്ടും എടുക്കും

അതിനാൽ ഈ ലിമിറ്റ് 1 ആയി വരും അതിനാൽ ഈ രണ്ട് ഫംഗ്ഷനുകളുടെയും അനുപാതമായി നമുക്ക് ഇവിടെ പൂജ്യമല്ലാത്ത ലിമിറ്റ് ലഭിക്കുന്നു അതിനാൽ രണ്ട് ഇന്റഗ്രലുകളും ഒരേപോലെ പ്രവർത്തിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ എന്ന g ഇന്റഗ്രലിനെക്കുറിച്ച് നമുക്കറിയാം അതിനാൽ ഇവിടെ x ന്റെ പവർ പകുതിയാണ് ഇത് 1 ൽ താഴെയാണ് അതിനാൽ ഇത് ഒരു ടെസ്റ്റ് ഇന്റഗ്രൽ ആയതിനാൽ ഇത് അടിസ്ഥാനപരമായി ഈ ഇന്റഗ്രലിനെ വ്യതിചലിപ്പിക്കുന്നു ഒപ്പം ഈ x ന്റെ ഈ പവർ 1 ൽ കുറവോ തുല്യമോ ആയിരിക്കുമ്പോഴെല്ലാം ഡൈവേർജെൻസ് ഉണ്ട് അതിനാൽ ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നു കാരണം രണ്ട് ഇന്റഗ്രലുകളും ഒരേപോലെ പ്രവർത്തിക്കും അതിനാൽ താരതമ്യ പരിശോധനയിലൂടെ നൽകിയിരിക്കുന്ന ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വീണ്ടും തെളിയിച്ചു ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ കാണിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ഇന്റഗ്രലിനെ ആയി വിഭജിക്കുന്നു അതിനാൽ 0 മുതൽ 1 വരെ ഉള്ള നീക്കംചെയ്യാൻ ഞങ്ങൾ പലപ്പോഴും ഉപയോഗിച്ച തന്ത്രമാണിത് കാരണം പ്രോപ്പർ ഇന്റഗ്രൽ ആണ് അതിനാൽ ഈ പ്രോപ്പർ ഇന്റഗ്രലിന് ഫൈനെറ്റ് മൂല്യം ഉണ്ട് അതിനാൽ ഇത് ഒരു കൺവെർജെന്റ ഇന്റഗ്രൽ ആണെങ്കിൽ എല്ലാം കൺവെർജ്ചെയ്യന്നു അത് സ്വാഭാവികമായി ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ നൽകിയ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുo അതിനാൽ ഇപ്പോൾ താരതമ്യ പരിശോധന പ്രയോഗിക്കുന്നതിന് വിപുലീകരിക്കുകയാണെങ്കിൽ എന്ന് കിട്ടുo ഇത് എല്ലായ്പ്പോഴും ടേമിനേക്കാൾ വലുതായിരിക്കും അതിനാൽ നമുക്ക് എല്ലാ പദങ്ങളും പോസിറ്റീവ് ആണ് x കർശനമായി പോസിറ്റീവ് ആണോ അതിനാൽ എല്ലാ x 0 അല്ലെങ്കിൽ x 0 നും ഈ പദം ടേമിനേക്കാൾ വലുതായിരിക്കും കാരണം ടേം ഇതിനകം ഇവിടെ സജ്ജമാക്കുന്നു വാസ്തവത്തിൽ x 0 ഉം അതിനാൽ എല്ലാ x നും ഇപ്പോൾ ശരിയാണ് അതിനാൽ 1 നെക്കാൾ വലുതായിരിക്കും കാരണം ഇത് ഞങ്ങൾ ഇവിടെ എടുത്ത അതേ പദമാണ് മറ്റുള്ളവയെല്ലാം പോസിറ്റീവ് പദങ്ങളാണ് അതിനാൽ ഏത് സാഹചര്യത്തിലും എല്ലാ x നും ഈ അസമത്വം നിലനിർത്തും അതിനാൽ എന്നതിന്റെ ഫലമാണിത് അതിനാൽ ഇത് ഇൻവെർട്ട് ചെയ്താൽ ഇവിടെ x 0 എടുക്കുന്നില്ല അതിനാൽ ഇത് x1 ന് സ്വാഭാവികമായും ശരിയാണ് അതിനാൽ ടേം ഫലം നമുക്ക് ഉണ്ട് ഈ ടെസ്റ്റ് ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു കാരണം ഇവിടെ ഫംഗ്ഷൻ നെകാൾ വലിയ മൂല്യങ്ങൾ എടുക്കുന്നു ഒപ്പം ഈ ഡോമിനേറ്റിങ് ഇന്റഗ്രലിൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ സ്വാഭാവികമായും ഇന്റഗ്രൽ ഉം കൺവെർജ് ചെയ്യുന്നു ഈ പ്രോപ്പർ ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു കാരണം ഈ രണ്ട് ഇന്റഗ്രല്ലുകളും ഞങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട് x 1 നെക്കാൾ വലുതാണെങ്കിൽ 0 ന് തുല്യമല്ല ഇവിടെ രണ്ട് ഇന്റഗ്രലുകളായി വിഭജിച്ച് നെ വഴിതിരിച്ചുവിടാം കാരണം ആദ്യത്തേത് പ്രോപ്പർ ഇന്റഗ്രലാണ് എന്തായാലും x 1 നെക്കാൾ വലുതാണ് അതിനാൽ ഇത് കൺവെർജ് ചെയ്യുന്നു അവയുടെ തുകയും തന്നിരിക്കുന്ന ഇന്റഗ്രല്ലുo കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണം കൂടി എടുക്കും ഇന്റഗ്രൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഈ സാഹചര്യത്തിലും x0 കൈകാര്യം ചെയ്യും കാരണം x ന് ഇവിടെ ഈ പ്രശ്നം ഉണ്ട് അതിനാൽ നമുക്ക് ഈ വീണ്ടും വിഭജികാം ഇവിടെ ആദ്യത്തെ ഇന്റഗ്രൽ പ്രോപ്പർ ഇന്റഗ്രലാണ് കാരണം ലിമിറ്റ് x → 0 ഫൈനറ്റാണ് അങ്ങനെയാകുമ്പോൾ x → 0 ഇന്റഗ്രാൻഡിൽ പ്രോപ്പർ ഇന്റഗ്രലാണ് രണ്ടാമത്തേത് കൺവെർജ് ചെയ്യുന്നു കാരണവും വ്യക്തമാണെന്ന് ഇവിടെ നൽകിയിരിക്കുന്ന ഇന്റെഗ്രാൻഡ് കൺവെർജ് ചെയ്യുന്നതായി നമുക്കറിയാം അതിനാൽ ഇവിടെ ഇത് ഒരു ഡോമിനേറ്റിങ് ഇന്റഗ്രലാണ് കാരണം ഈ നെകാൾ വലിയ മൂല്യങ്ങൾ എടുക്കുന്നു അതിനാൽ താരതമ്യ പരിശോധനയിലൂടെ കൺവെർജ് ചെയ്യുന്നതായി നമുക്കറിയാം അതിനാൽ ടെസ്റ്റ് ഇന്റഗ്രലിനെ അടിസ്ഥാനമാക്കി കൺവെർജ് ചെയ്യുന്നു അതിനാൽ ഇത് ഇവിടെ ഒരു ഡോമിനേറ്റിങ് ഇന്റഗ്രലായിരുന്നു അതിനാൽ സ്വാഭാവികമായും ഇതും കൺവെർജ് ചെയ്യുo ഇപ്പോൾ മറ്റൊരു ഉദാഹരണം എടുകാം

ഡൈവേർജ് ചെയ്യുന്നുവെന്ന് കാണിക്കും ഇന്റെഗ്രാൻഡ് f എടുക്കാം അതിനാൽ f ആണെന്ന് കരുതുക അതിനാൽ x നമുക്ക് ഡിനോമിനേറ്ററുകളിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇതിൽ നിന്ന് പുറത്തെടുക്കും കാരണം ആകുമ്പോൾ ഇവയുടെ സ്വഭാവം അറിയണം അതിനാൽഇവിടെ നിന്ന് പുറത്തെടുക്കുന്നു ഈ x ആണ് ഇവിടെ വീണ്ടും ഉണ്ട് അതിനാൽ ഇത് 13 ആണ് അതിനാൽ x ഇൻഫിനിറ്റിയിലേക്ക് അടുക്കുമ്പോൾ ഇത് 1 ഉം x → 0 ആകുമ്പോൾ കോൺസ്റ്റന്റ് പദവും ആയിരിക്കും അതിനാൽ പ്രധാനമായും ഇതിന്റെ സ്വഭാവം ഈ പദം ഉപയോഗിച്ച് നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു x പവർ ആണ് അതിനാൽ ആകുമ്പോൾ അല്ലെങ്കിൽ ആയിമാറുന്നു അതിനാൽ ഇവിടെ ഇന്റഗ്രാന്റ് ആയിരിക്കുമ്പോൾ ആയി പ്രവർത്തിക്കുന്നു ഇപ്പോൾ നമുക്ക് ഫംഗ്ഷൻ g ലഭിച്ചു അതിനാൽ g ന് തുല്യമാണ് അതിനാൽ ലിമിറ്റ് ആകുമ്പോൾ ഫംഗ്ഷൻ ആകുന്നു അതിനാൽ ലിമിറ്റ് ആകുമ്പോൾ f ആകുന്നു അതിനാൽ ന്യൂമറേറ്റർ ആക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഉള്ളത് ലിമിറ്റ് യാണ് അവിടെ നമുക്ക് ഉണ്ട് അതിനാൽ ആകുമ്പോൾ ഇത് ആയിരിക്കും ഇത് 1 ലേക്ക് പോകും അതിനാൽ ലിമിറ്റ് ലഭിക്കും അതിനാൽ ഈ ലിമിറ്റ് തുല്യമായതിനാൽ ഈ ലിമിറ്റ് പൂജ്യമല്ലാത്ത സംഖ്യയാണ് അതിനാൽ ഇന്റഗ്രൽ f ഉം ഇന്റഗ്രൽ g യും ഒരേപോലെ പ്രവർത്തിക്കും അതിനാൽ ഇവിടെ ഇന്റഗ്രൽ 0 ആണ് അതിനാൽ ഇവിടെ p ന്റെ പവർ 1 ൽ കുറവാണ് അതിനാൽ ഈ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുo ഇന്റഗ്രൽ f ഡൈവേർജ് ചെയ്യുo ആകുമ്പോൾ ഇന്റഗ്രൽഡൈവേർജ് ചെയ്യുന്നു കാരണം മായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇവ രണ്ടും ഒരേ സ്വഭാവം കാണിക്കും താരതമ്യ പരിശോധന 1 ൽ എന്ന ഈ ബന്ധം ഉണ്ട് അങ്ങനെയാണെങ്കിൽ g കൺവെർജ് ചെയ്യുന്നു വലിയ മൂല്യങ്ങൾ എടുക്കുന്ന ഫംഗ്ഷനെ ഇന്റഗ്രൽ g കൺവെർജ് ചെയ്പ്പിക്കുന്നു അതിനാൽ താരതമ്യ ടെസ്റ്റ് 2ൽ വീണ്ടും ഈ ബന്ധങ്ങൾ കാണാം ആകുമ്പോൾ g 0 ആയിരിക്കരുത് അതിനാൽ ഈ മൂല്യം k ആണ് ആണെങ്കിൽ അവ രണ്ടും ഒരേപോലെ പ്രവർത്തിക്കും k എന്നത് 0 ന് തുല്യമാകുകയാണെങ്കിൽ ഇത് വളരെ വേഗത്തിൽ വളരുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ മറ്റതുo കൺവെർജ് ചെയ്യപെടുന്നു k ഇൻഫിനിറ്റിയാകുമ്പോൾ g ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യപെടുന്നു ഇന്റഗ്രൽ g ചെറുതാകുമ്പോൾ f ഡോമിനേറ്റ് ചെയ്യുന്നു വ്യതിചലിക്കുന്നുവെങ്കിൽ വലുതും വ്യതിചലിക്കും അതിനാൽ ഈ താരതമ്യ ടെസ്റ്റ് 1 ഉം താരതമ്യ ടെസ്റ്റ് 2 ഉം ഈ പ്രഭാഷണത്തിന്റെ ഉപസംഹാരമായി ചെറിയ ഇന്റഗ്രൽ ഡൈവേർജ് ചെയ്യുമ്പോൾ വലുതും ഡൈവേർജ് ചെയ്യപെടുന്നു അതിനാൽ ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ വളരെ നന്ദി